അടുത്തതായി നമുക്ക് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കാണാം ഇതുവരെ നമ്മൾ പ്രോപ്പർട്ടിയുടെ മേലുള്ള നമ്മുടെ റൈറ്റ്സ് അഥവാ അവകാങ്ങൾ എന്താണ് എന്ന് കാണുകയായിരുന്നു പ്രോപ്പർട്ടി എന്നത് ഒരു ഫോം ഓഫ് റെഗുലേഷൻ ആണ് ഇത് ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി യുടെ കാര്യത്തിലാകുമ്പോൾ മനുഷ്യമനസ്സുകളിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെയും നിർമ്മിതികളുടെയും ഫോം ഓഫ് റെഗുലേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടിയും ഉണ്ടാകാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഉണ്ടാകാം ഇത് പ്രോപ്പർട്ടിയുടെ രണ്ടു വിശാലമായ വർഗീകരണം ആണ് ഉദാഹരണത്തിന് പബ്ലിക് പ്രോപ്പർട്ടി എന്നത് പൊതുവായതാണ് എന്നാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നത് ഒരു വ്യക്തി വ്യക്തിപരമായി കൈവശം വയ്ക്കുന്നതാണ് പ്രോപ്പർട്ടി എന്ന ആശയം മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഭൂമിയെ ഉദാഹരണമായി എടുക്കാം ഭൂമി എന്ന പ്രോപ്പർട്ടി ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും നിലനിൽക്കുന്നതാണ് നമുക്ക് ആ പ്രത്യേക സ്ഥലത്ത് പോകാനും അവിടം വിശകലനം ചെയ്തു പഠിക്കാനും ആ ഭൂമിയുടെ അതിരുകൾ കണ്ടു മനസ്സിലാക്കാനും സാധിക്കുന്നു അങ്ങനെ ആ ഭൂമിയെ കുറിച്ച് അതിൻറെ പരിധികളെ കുറിച്ച് അതിൻറെ അതിരുകളെ കുറിച്ച് അതിന് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ ഭൂമിയുടെ അതിരുകളെ കുറിച്ച് ഭൂമിയിലേക്കുള്ള വഴിയെ സംബന്ധിച്ച് എല്ലാം ഒരു സാമാന്യമായ അറിവ് നേടാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ പ്രോപ്പർട്ടിയെ അതും പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു അതായത് ഒരാളുടെ സ്വകാര്യസ്വത്ത് മറ്റൊരാളുടെ സ്വകാര്യ സ്വത്തിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഹോൾ മാർക്ക് അഥവാ മുഖമുദ്രകൾ അഥവാ പ്രത്യേക അടയാളങ്ങൾ വരുന്നത് ഈ സ്വത്തിൻറെ പരിമിതികളിൽ നിന്നും ആണ് ഒരു തുണ്ട് ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പരിമിതികൾ എന്നു പറയുന്നത് അതിൻറെ നാലതിരുകൾ ആണ് ഈ ഭൂമിയിലേക്ക് പോയി അവിടം കണ്ടു അളന്ന് ഈ നാല് അതിരുകളെ നിർണയിക്കുവാൻ നമുക്ക് സാധിക്കും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിരുകൾ ആണെങ്കിൽ അത് ഭൂമിയുടെ വിസ്തൃതിയെ കുറിച്ച് നമുക്ക് ശരിയായ അവബോധം നൽകുവാൻ മതിയായതാണ് ആ സ്ഥലം അളക്കാനും അക്കങ്ങളിൽ ഉറപ്പിക്കുവാനും കണക്ക് കൂട്ടുവാനും കൃത്യമായ വിസ്തൃതി നിർണയിക്കുവാനും ഇതുമൂലം നമുക്ക് സാധിക്കുന്നു ഭൂമിയേയും ഭൂമിയുടെ അവകാശിയെയും അതിൻറെ രേഖകളിൽ നിന്നും അഥവാ പ്രമാണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ സാധാരണ പറയാറുള്ള ഡീഡ് അഥവാ കരാർ അല്ലെങ്കിൽ സെയിൽ ഡീഡ് അഥവാ കച്ചവടക്കരാർ വഴിയാണ് ഭൂമി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു ശരിയായ സെയിൽ ഡീഡിൽ അതിൻറെ അവസാനഭാഗത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഷെഡ്യൂളിൽ ഈ ഭൂമിയുടെയുടെ അതിരുകളെ കുറിച്ചും അതിൻറെ വിസ്തൃതിയെക്കുറിച്ചും വിശദമായ വിവരണമാണ് കൊടുക്കുന്നത് ഇക്കാരണങ്ങളാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ കാര്യത്തിലാകുമ്പോൾ നമുക്ക് ഇരട്ടി ഉറപ്പോടെ ഭൂമിയെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഭൂമിയുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ ഭൂമിയുടെ ലൊക്കേഷനിൽ പോയി കണ്ടു മനസ്സിലാക്കുന്നതിനും അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും സാധിക്കുന്നു എന്നതാണ് അതിൻറെ സൌകര്യം അപ്പോൾ രണ്ടുവിധത്തിൽ നമുക്ക് ആ സ്ഥലത്തിൻറെ കൃത്യതയും വിശ്വാസ്യതയും പരിശോധിക്കാവുന്നതാണ് ഒന്നാമത് സ്ഥലം നേരിൽ പോയി അതിൻറെ അതിരുകൾ കണ്ടു നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ വസ്തുവിൻറെ ടൈറ്റിൽ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുമായി ഭൂമിയുടെ അതിരുകൾ തട്ടിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാം ഒരു യഥാർത്ഥ ഭൂസ്വത്ത് പോലെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും നിലനിൽക്കുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞതു പോലെ ഒരു കണ്ടുപിടിത്തമോ ഒരു ആശയമോ ഒരു ആശയ ആവിഷ്കാരമോ പോലുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൻറെയും ബുദ്ധിയുടെയും നിർമ്മാണം ആയ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അതിരുകൾ നിർണയിക്കുന്നതിന് നമുക്ക് മറ്റുചില രീതികൾ ആവശ്യമായിവരുന്നു ഒരു വ്യക്തി ഒരു കണ്ടുപിടുത്തവുമായി വരുന്നു അതാകട്ടെ ഒരു എൻജിൻറെ ആന്തരിക ജ്വലനം മെച്ചപ്പെടുത്താനുള്ള ഒരു മാതൃകയാണ് ഇതൊരു കണ്ടുപിടിത്തമാണ് യന്ത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നടത്തിയ ഈ വിദ്യ യന്ത്രത്തിൻറെ ഉള്ളിലാണ് നിലകൊള്ളുന്നത് ഈ യന്ത്രം പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് ഈ കണ്ടുപിടിത്തം എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനോ യന്ത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് എന്താണ് എന്ന് കാണുന്നതിനോ സാധിക്കുകയില്ല വളരെ വിശദമായ ഒരു വിവരണം ലഭിക്കാത്തിടത്തോളം യന്ത്രത്തിൽ നടത്തിയ ഈ മെച്ചപ്പെടുത്തലിനെപറ്റി മനസ്സിലാക്കുക വളരെ ദുഷ്കരമായിരിക്കും അതല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾ ഓരോന്നായി അഴിച്ച് വിശദമായി പരിശോധിക്കേണ്ടിവരും അല്ലാതെ ആ ഉപകരണത്തെ അഥവാ യന്ത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നടത്തിയിരിക്കുന്ന ആ കണ്ടുപിടിത്തം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഉപകരണത്തിൻറെ ആന്തരിക ജ്വലന യന്ത്രത്തിൽ മെച്ചപ്പെടുത്തൽ വരുത്തിയിട്ടുണ്ടെങ്കിലും കണ്ടുപിടുത്തം നടത്തിയ വ്യക്തി തന്നെ അതിനെ പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കാത്തിടത്തോളം മറ്റുള്ളവർക്ക് അതേപ്പറ്റി മനസ്സിലാക്കുക ദുഷ്കരമാണ് പേറ്റന്റ് നിയമ പ്രകാരം ഓരോ കണ്ടുപിടുത്തവും വളരെ വിശദമായി വാക്കുകളിൽ വിവരിക്കേണ്ടിയിരിക്കുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി രേഖയുടെ ഈ വിവരണാത്മക വശത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ എന്നു പറയുന്നു ഈ പേറ്റൻറെ് സ്പെസിഫിക്കേഷൻ ഒരു ഭൂമിയുടെ പ്രമാണത്തിന് തത്തുല്യമാണ് അതിൽ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതു കൂടാതെ പേറ്റന്റ് ഉടമസ്ഥൻറെ അവകാശങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് പേറ്റന്റ് നൽകുമ്പോൾ അതിൻറെ പ്രമാണത്തിൽ വിവരിക്കുന്ന ഈ അവകാശങ്ങൾ പ്രോപ്പർട്ടിയുടെ അതിരുകളെ വളരെ കൃത്യമായി വേർതിരിച്ച് അടയാളപ്പെടുത്തുന്നു പേറ്റന്റ് ഓണറുടെ അവകാശത്തെയും അവകാശങ്ങളെയും മനസ്സിലാക്കുന്നതിന് പേറ്റന്റ് സ്പെസിഫിക്കേഷനിലേക്കും അതിൻറെ അവസാന ഭാഗത്തേക്കും നോക്കിയാൽ മതി അത് ഒരുപക്ഷേ ഒരേ ഒരു അവകാശമോ അല്ലെങ്കിൽ ഒരു കൂട്ടം അവകാശങ്ങളോ ആയിരിക്കാം ഈ അവകാശങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അതിരുകളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രോപ്പർട്ടി എന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കൈവശം വെക്കാവുന്നതോ കൈമാറ്റം ചെയ്യാവുന്നതോ ആയ എന്തോ ഒന്ന് എന്നാണ് മാത്രമല്ല ഈ പ്രോപ്പർട്ടിക്ക് അതിരുകൾ ഉണ്ടായിരിക്കുകയും ഈ അതിരുകൾ ഒരാളുടെ പ്രോപ്പർട്ടിയെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽനിന്ന് വ്യതിരിക്തമാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു പേന എടുക്കാം പേനയ്ക്കു സ്ഥലത്തിൻറെയും സമയത്തിൻറെയും അതിരുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല അത് ഒരു വ്യക്തിയുടെ കൈവശം ആയിരിക്കും സാധാരണയായി അതിൻറെ കൈവശാവകാശത്തെപ്പറ്റി നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകാറില്ല നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിനും ഇടയിൽ പേനയുടെ അവകാശത്തെ പ്രതി കലഹം ഉണ്ടാകുന്ന ഒരു രംഗം ഭാവന ചെയ്തു നോക്കൂ എങ്ങിനെയാണ് ഉടമസ്ഥാവകാശത്തേപ്പറ്റിയുള്ള ഈ തർക്കത്തെ നമ്മൾ പരിഹരിക്കുക നിങ്ങളുടെ സുഹൃത്ത് വളരെ സമർത്ഥനാണ് എങ്കിൽ അദ്ദേഹം പേന തുറന്ന് അതിനികത്തു എവിടെയെങ്കിലും അദ്ദേഹത്തിൻറെ പേര് വളരെ രഹസ്യമായി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കാം അത് കാണിച്ചു തന്ന് ആ പേന അദ്ദേഹം എടുക്കുന്നു വേറൊരാൾക്കും അതിന്മേൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കാൻ സാധിക്കുകയില്ല കാരണം അതിന്മേൽ ഒരു രഹസ്യ അടയാളം ഇട്ടിരിക്കുന്നു ഇതിന് വിപരീതമായി മറ്റൊരു വിധത്തിൽ ഇത് തെളിയിക്കാം അതായത് നിങ്ങൾക്ക് പറയാം ഞാൻ ഈ പേന വളരെ കാലമായി കൈവശം വച്ചിരിക്കുന്നു ഇത് എൻറെ പേനയാണ് അപ്പോൾ ഇതിന്മേൽ അവകാശം ഉന്നയിക്കാൻ മറ്റേ വ്യക്തിക്ക് സാധിക്കാതെ വരുന്നു ഇതിന് മേലെ നിങ്ങളുടെ സുഹൃത്തിന് വീണ്ടും അവകാശം ഉന്നയിക്കാം വേണമെങ്കിൽ അദ്ദേഹം പേന വാങ്ങിയപ്പോൾ കിട്ടിയ ബില്ല് കാണിച്ചുകൊണ്ട് അവകാശപ്പെടാം ഇത് ഞാൻ വാങ്ങിയതാണ് ഇതാ ഈ ബില്ല് അതിന് തെളിവാണ് ഇപ്പോൾ ഈ തർക്കത്തിൽ നിങ്ങൾക്ക് ഒരടി പിറകോട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെക്കാൾ ഈ പേനയ്ക്ക് അർഹത ഉണ്ടല്ലോ എന്ന് ഈ ന്യായത്തെ നിങ്ങൾക്ക് മറ്റൊരു ന്യായം കൊണ്ട് വീണ്ടും മറികടക്കാം അതായത് നിങ്ങൾക്ക് പറയാം ഈ ബില്ല് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഈ പേന വാങ്ങിയപ്പോൾ കിട്ടിയ ബില്ലല്ല ഇത് എന്നൊക്കെ ഒരു പേനയുടെ അവകാശം നിർണയിക്കുന്ന വേളയിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങളാണ് ഇവയെല്ലാം പതിയെ നിങ്ങളുടെ സുഹൃത്തിനെ ആ പേനയുടെ മേലുള്ള നിങ്ങളുടെ അവകാശത്തെ ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ സാധിച്ചു എന്ന് ഊഹിക്കുക തർക്കം പരിഹരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആ പേന നിങ്ങൾക്ക് പൂർണ്ണമായും സ്വന്തമാകുന്നു ഒരു വസ്തുവിൻറെ മേലുള്ള അവകാശ തർക്കത്തെ ഈ വിധത്തിൽ പരിഹരിക്കുവാൻ സാധാരണ സാധിക്കുകയില്ല ഒന്നുകിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണം ആ വസ്തു ഇടതടവില്ലാത്ത ഒരു ദീർഘകാലത്തേക്ക് നിങ്ങളുടെ കൈവശം ആയിരുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം തെളിയിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള മറ്റേതെങ്കിലും തെളിവ് അതായത് പേന വാങ്ങിയപ്പോൾ ലഭിച്ച ബില്ല് അതുമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയതാണെങ്കിൽ അതിനുള്ള തെളിവ് കാണിക്കുവാൻ സാധിക്കണം ആ വസ്തു നിങ്ങളുടെതാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരിക എന്നത് പരമപ്രധാനമാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല അവയുടെ മേലുള്ള അവകാശം പ്രത്യേക സ്ഥലനിഷ്ഠമായോ സമയനിഷ്ഠമായോ ബന്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല അവ സ്പർശിച്ചു മനസ്സിലാക്കുവാനും സാധ്യമല്ല ഇക്കാരണങ്ങളാൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് ഒരു പേറ്റന്റിൻറെ കാര്യത്തിൽ വളരെ വിശദവും വിശാലവുമായ ഒരു വിവരണം എഴുതുക ആവശ്യമാണെന്ന് വരുന്നത് ആ വിവരണം വഴി ഈ കണ്ടുപിടുത്തം ഇതിനു മുൻപുള്ള സമാനമായ മറ്റു കണ്ടുപിടുത്തങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കുവാൻ പര്യാപ്തമായിരിക്കണം വിവരിക്കപ്പെടുന്ന കണ്ടുപിടുത്തത്തോട് സമാനമായ കണ്ടുപിടുത്തങ്ങൾ മുൻകാലങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രയർ ആർട്ട് എന്ന് പറയുന്നു മുൻകാലങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രയർ ആർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ഇൻവെന്റർ അഥവാ ഉപജ്ഞാതാവ് നൽകിയിട്ടുള്ള സംഭാവന വളരെ വിശദമായും കൃത്യമായും വിവരിക്കേണ്ടിയിരിക്കുന്നു പെറ്റൻറ് സ്പെസിഫിക്കേഷൻ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം മുൻപു നടന്നിട്ടുള്ള സമാനമായ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇൻവെന്റർ നൽകിയ സംഭാവനകളെയും പുതിയ കണ്ടുപിടുത്തത്തെയും വിശദമായി പ്രതിപാദിച്ചതിനു ശേഷം അദ്ദേഹത്തിൻറെ സ്വന്തം പ്രോപ്പർട്ടിയെ അദ്ദേഹം അവകാശപ്പെടുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പെറ്റന്റ് സ്പെസിഫിക്കേഷൻറെ അവസാനഭാഗത്ത് ക്ലെയിംസ് എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെടുന്നത് ഈ ക്ലെയിംസിനാണ് വാസ്തവത്തിൽ സംരക്ഷണം ലഭിക്കുന്നത് ഒരു പെയിറ്റൻറ് വഴി ലഭിക്കുന്ന സംരക്ഷണം വാസ്തവത്തിൽ ഈ ക്ലെയിംസിന് ലഭിക്കുന്ന സംരക്ഷണത്തിലേക്ക് ഒതുങ്ങുന്നു അല്ലാതെ പേറ്റൻറ് സ്പെസിഫിക്കേഷൻറെ വിവരണാത്മക ഭാഗത്ത് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് അല്ല അങ്ങനെയാകുമ്പോൾ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ തെളിവ് എന്നു പറയുന്നത് അത് ഒരു കണ്ടുപിടുത്തം ആണെങ്കിൽ പേറ്റന്റ് ആണ് തെളിവിനായി പേറ്റന്റ് എന്ന ആ പ്രമാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പെറ്റൻറ് സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ നോക്കുന്നു ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും പ്രോപ്പർട്ടി റൈറ്റ് കിട്ടാൻ ഇത്രയും എളുപ്പമാണോ എന്ന് വെറുതെ ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്താൽ മാത്രം മതിയാകും അല്ലോ എന്ന് നിങ്ങൾ കാര്യങ്ങൾ എല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് പേറ്റന്റ് ഓഫീസ് വിശദമായി പരിശോധിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിൽ ഈ പരിശോധന നിർവഹിക്കുന്നത് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് എന്ന സ്ഥാപനമാണ് ഈ പരിശോധനയിൽ നിങ്ങൾ വിജയിച്ചു എങ്കിൽ മാത്രമേ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് നിങ്ങൾക്ക് പേറ്റന്റ് അനുവദിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലത്തേക്കുള്ള സംരക്ഷണം അത് ഉറപ്പ് നൽകുന്നു അതിന് നിങ്ങൾ നിശ്ചിത ഫീസ് അടച്ച് അതിനെ സജീവമായി നിലനിർത്തേണ്ടിയിരിക്കുന്നു